ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള ഇപ്പോൾ തന്നെ ഒരു വിഷയം ആയി മാറിയെങ്കിലും മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ വ്യത്യസ്ത വശങ്ങൾ പരിശോധിക്കാൻ നമ്മൾ ശ്രമിക്കും അടിസ്ഥാനപരമായി കാര്യങ്ങളുടെ അവലോകനം നടത്തും വ്യത്യസ്ത സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണ് എവിടെയാണ് ആവശ്യവും മറ്റും എന്നും നോക്കും അതിനാൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നതുപോലെ ഈ മൊബൈൽ ഉപകരണങ്ങളോ സ്മാർട്ട്ഫോൺ സേവന ദാതാക്കളുണ്ട് രണ്ടാമതായി വളരെ വിഭവസമൃദ്ധമായ ഒരു രംഗവും നമുക്കുണ്ട് വിഭവസമൃദ്ധമെന്ന് പറയാൻ ഉപകരണങ്ങൾ വരുന്നു അത് ഇന്നലത്തെ ഉപകരണങ്ങളേക്കാൾ വളരെ വിഭവസമൃദ്ധമാണ് അതിനാൽ ഡെസ്ക്ടോപ്പിലോ ആവശ്യത്തിനായി ഉപയോഗിക്കാനാകുമോ എന്ന ഒരു പ്രവണത നൽകിയിട്ടുണ്ട് അല്ലേ അതിനാൽ എനിക്ക് പ്രവർത്തിക്കുന്ന ചില ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് നല്ല കമ്പ്യൂട്ടിംഗ് ആവശ്യമാണ് അവയെ കമ്പ്യൂട്ടിംഗ് പ്രവർത്തനത്തിനായി മറ്റ് ചില വിഭവസമൃദ്ധമായ ഉപകരണങ്ങളിലേക്കോ മറ്റെന്തെങ്കിലുമോ അപ്ലോഡ് ചെയ്യാനുള്ള വ്യവസ്ഥ വേണം അതിനാൽ ക്ലൌഡിനും മൊബൈൽ ഉപാധികൾക്കുമിടയിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്വാഭാവിക ആവശ്യമായിട്ടാണ് ഇവിടെ വന്നത് അതിനാൽ ആ മൊബൈൽ ഉപകരണത്തിന് ഈ കമ്പ്യൂട്ടിംഗ് ഘട്ടങ്ങളിലേക്കോ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂളുകളിലേക്കോ ക്ലൌഡിലേക്ക് ഓഫ്ലോഡ് ചെയ്യാനും അത് തിരികെ നേടാനും പ്രവർത്തിക്കാനും കഴിയും അത് ഒരു അത്ഭുതകരമായ കാര്യമാകുമായിരുന്നു അല്ലേ എനിക്ക് പറയാൻ കഴിയുന്നതുപോലെ ചില വിവരങ്ങൾ പാരിസ്ഥിതിക കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രവചന മാതൃക ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ വളരെ ഹ്രസ്വകാല പ്രവചനവും അതിനുശേഷം ആ പ്രവചന മോഡലും ആവശ്യമാണ് ചില പ്രാരംഭ വിശകലനത്തിൽ സെൻസിംഗ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം വിഭവങ്ങളുണ്ട് അതിനാൽ ഞാൻ ചെയ്യുന്നത് ക്ലൌഡിലേക്ക് വളരെ ഉയർന്ന വിഭവസമ്പന്നമായ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഈ കാര്യം ഓഫ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് എനിക്ക് ഫലങ്ങൾ ലഭിക്കുകയും ഫലം എന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റ് കൊളാറ്ററൽ ഡാറ്റ ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഒരുതരം ഡാറ്റ വിശകലനം ഡാറ്റാ അനലിറ്റിക്സ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ തരം ആപ്ലിക്കേഷനുകൾ ഉണ്ടാകാം അത് മറ്റ് കാര്യങ്ങൾ ഓഫ്ലോഡ് ചെയ്യാമായിരുന്നു അതിനാൽ ഇത്തരത്തിലുള്ള സംയോജനം സാധ്യമാണോ ഏതുതരം ആർക്കിടെക്ചർ വ്യത്യസ്ത തരം വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ പ്രഭാഷണത്തിൽ തുടർച്ചയായി ഒന്നോ രണ്ടോ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഇതു കാണാൻ പോകുന്നു അതിനാൽ ഇന്ന് നമ്മൾ മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്താണ് കാര്യങ്ങൾ അതിനാൽ നമ്മൾ കാണുന്നതെന്താണ് ചർച്ചചെയ്യുമ്പോൾ എന്താണ് പ്രചോദിപ്പിക്കുന്നത് സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ മാത്രമല്ല സ്മാർട്ട്ഫോണുകളുടെ അല്ലെങ്കിൽ സ്മാർട്ട്ഫോണിന്റെ ഉപയോഗങ്ങളുടെ വലിയ വളർച്ചയുണ്ട് ഈ ആപ്ലിക്കേഷനുകളും ഉറവിടങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിലൂടെ മൊബൈൽ ഉപകരണങ്ങളുടെ ശേഷി വർദ്ധിച്ചു ഇന്റർനെറ്റ് മൊബൈൽ ഉപകരണങ്ങളുടെ ആക്സസ് വളരെ എളുപ്പമായി ബാക്ക് എൻഡ് ഇന്റർനെറ്റ് വർക്കിംഗ് ഉള്ള ഈ മൊബൈൽ ഉപകരണങ്ങളുടെ കണക്റ്റിവിറ്റി പോലെ മറുവശത്ത് വിഭവ വെല്ലുവിളികൾ പോലുള്ള ചില കാര്യങ്ങളുണ്ട് ബാറ്ററി ലൈഫ് സ്റ്റോറേജ് ബാൻഡ്വിഡ്ത്ത് എന്നിവ പോലെ ഇവ ചില വിഭവ വെല്ലുവിളികളാണ് ആപ്ലിക്കേഷൻ ഭാരമുള്ളതാണെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് കൂടുതൽ റിസോഴ്സ് ആവശ്യമാണ് റിസോഴ്സ് ഹങ്ഗ്രി ആപ്ലിക്കേഷനുകൾ എന്ന് നമ്മൾ പറയാറില്ലേ അതിനാൽ മൊബൈൽ ഉപകരണങ്ങളിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഉപയോക്താക്കൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാറ്റ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിലൂടെ നേട്ടം നൽകുന്നു ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഉപയോക്താവിന് കുറഞ്ഞ ചെലവിലുള്ള സേവനം നൽകുന്നുവെന്ന് നമ്മൾ കണ്ടു മോഡലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പണമടയ്ക്കുന്നു ഒപ്പം സംയോജിപ്പിക്കാൻ സാധ്യതയുണ്ടോ ഇത് തന്നെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഇതിനെ എംസിസി എന്ന് ചുരുക്കിപ്പറയുന്നു അല്ലേ അതിനാൽ നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ മൊബൈലും മറ്റും ഉണ്ട് അതിനാൽ ഞങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം മൊബൈൽ ബാക്കെൻഡ് ആസ് എ സർവീസ് ആണ് നമ്മൾ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതുപോലെ അക്സസ്സ് എന്നത് ഒരു തരം സേവനമാണ് അതിനാൽ മൊബൈൽ ബാക്കെൻഡ് നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലുള്ള ഒരു സേവനമായി എന്തുകൊണ്ട് കണ്ടു കൂടാ ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡവലപ്പർമാർക്ക് അവരുടെ അപ്ലിക്കേഷനുകളിലേക്ക് ക്ലൌഡ് ദാതാവ് ക്ലൌഡ് സംഭരണം പ്രോസസ്സിംഗ് എന്നിവയിലേക്ക് കണക്റ്റുചെയ്യാനുള്ള ഒരു മാർഗം നൽകുന്നു സമാരംഭിക്കൽ കൈകാര്യം ചെയ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സ്വന്തമാക്കുക എന്നിവയുടെ സങ്കീർണ്ണത ഇത് ഇല്ലാതെ ആക്കുന്നു അത് ഒരു ആവശ്യമല്ലേ ബാക്ക് എൻഡ് പ്രവർത്തനങ്ങൾക്ക് പകരം ഫ്രണ്ട് എൻഡ് വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലേ അതിനാൽ ഈ ആപ്ലിക്കേഷനുകൾ എങ്ങനെ വികസിപ്പിച്ചെടുക്കും എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ താല്പര്യം ബാക്ക് എൻഡ് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും നോക്കാമെന്നും മറ്റും അല്ല അതിനാൽ ഒന്നിലധികം അപ്ലിക്കേഷനുകൾ ഒന്നിലധികം ബാക്ക് എൻഡ് ഒന്നിലധികം ഡവലപ്പർമാർ തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമാണ് ഒന്നിലധികം മൊബൈൽ പ്ലാറ്റ്ഫോമുകൾ ഒന്നിലധികം സംയോജനം ഒന്നിലധികം മൂന്നാം കക്ഷി സംവിധാനങ്ങൾ എന്നീ കാര്യങ്ങളും അതായത് മൾട്ടി പാർട്ടി തരത്തിലുള്ള സിസ്റ്റങ്ങളുടെയും ആപ്ലിക്കേഷൻ വികസനത്തിനായി അർത്ഥവത്തായ വിഭവങ്ങളുടെയും സംയോജനമുണ്ട് മൂന്നാം കക്ഷി API ഉപകരണ SDK കൾ എന്റർപ്രൈസ് കണക്റ്ററുകൾ തുടങ്ങിയവ അതിനാൽ വ്യത്യസ്തമായ എന്ത് എന്തുകൊണ്ട് എപ്പോൾ എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ മൊബൈലുകളെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നതിന് നിരവധി ശ്രമങ്ങളോ സംരംഭങ്ങളോ ഉണ്ട് സ്പ്ലിറ്റ് ബ്രൌസറായ ആമസോൺ സിൽക്ക് ബ്രൌസർ ആപ്പിൾ സിരി ആപ്പിൾ ഐ ക്ളൌഡ് സ്മാർട്ട്ഫോണുകളിലെ ഇമേജ് തിരിച്ചറിയൽ അപ്ലിക്കേഷനുകൾ എന്നിവ മൊബൈൽ ഉപകരണങ്ങളിൽ റിയാലിറ്റി അപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിന് ഉപയോഗപ്രദമാണ് ബാക്കെൻഡിലുള്ള എല്ലാം അത് ഒരു ക്ലൌഡുമായി സംസാരിക്കുന്നു ഇത് സംഭരണത്തിനായിരിക്കാം ഇത് കമ്പ്യൂട്ടിംഗിനായിരിക്കാം അത് ഒരു ക്ലൌഡുമായി സംസാരിക്കുന്നു പ്രാഥമികമായി നിങ്ങൾക്ക് ഒരു ഇന്റർമീഡിയറ്റ് ഉയർന്ന ബാൻഡ്വിഡ്ത്ത് രംഗം ഉള്ളതിനാൽ ഇത് സാധ്യമാണ് മൊബൈൽ ഉപകരണത്തിൽ കണക്കുകൂട്ടൽ പ്രവർത്തിക്കുന്നതുപോലെ നിങ്ങൾ പരിധിയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നു അതിനാൽ ഇത്തരം കാലതാമസം മെറ്റലൈസ് ചെയ്യാൻ കഴിയുന്നത് ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ ഞാൻ ഏതെങ്കിലും ആപ്ലിക്കേഷനോ കമ്പ്യൂട്ടിംഗ് കാര്യങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഓഫ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു അതിലൊന്ന് ആപ്ലിക്കേഷൻ ഉപകരണത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുവെന്ന തോന്നൽ ഉണ്ടായിരിക്കണം അതായത് ഓഫ്ലോഡിംഗിലെ ഇന്റർമീഡിയറ്റ് കാലതാമസം അതിനാൽ ആപ്ലിക്കേഷന്റെ ഈ പ്രത്യേക ഭാഗം മുഴുവൻ ആപ്ലിക്കേഷനും മിനിമം ശരിയായിരിക്കണം എനിക്ക് ഡൈനാമിക് ഓഫ്ലോഡിംഗ് ചെയ്യണമെങ്കിൽ ഞാൻ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എനിക്ക് കാര്യങ്ങൾ ശരിയായി വിഭജിക്കേണ്ടതുണ്ട് ധാരാളം സമന്വയം ആവശ്യമാണ് മറ്റ് ആപ്ലിക്കേഷനുകളുമായി ആശ്രയത്വമുണ്ടെങ്കിൽ അവ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് നേരായ സാഹചര്യമല്ല അതിൽ ധാരാളം സങ്കീർണ്ണതകളുണ്ട് കൂടാതെ ധാരാളം സമയ ബന്ധങ്ങളും മറ്റ് കാര്യങ്ങളും പ്രവർത്തിക്കുന്നു ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടിംഗ് പോലുള്ള രംഗങ്ങൾ ഉണ്ടാകാം അതിനാൽ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് ഒരു നിർവചനമായി കാണാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ധാരാളം ഉണ്ട് ഇന്റർനെറ്റിലുടനീളം നിരവധി നിർവചനങ്ങൾ ലഭ്യമാണ് കുറച്ച് മാത്രമേ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നുള്ളൂ അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് വയർലെസ് നെറ്റ്വർക്ക് എന്നിവയുടെ സംയോജനമാണിത് മൊബൈൽ ഉപയോക്താക്കൾക്ക് സമ്പന്നമായ കമ്പ്യൂട്ടേഷണൽ ഉറവിടങ്ങൾ എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇന്റർമീഡിയറ്റ് വയർലെസ് നെറ്റ്വർക്കുകൾ അതിനാൽ അത് കാര്യത്തിന്റെ ഒരു വശമാണ് അതിനാൽ ക്ലൌഡിൽ ഡാറ്റ സംഭരണവും പ്രോസസ്സിംഗ് സേവനങ്ങളും മൊബൈൽ ഉപയോക്താവിന് എംസിസി നൽകുന്നു കമ്പ്യൂട്ടിംഗ് പവറും ഡാറ്റ സംഭരണവും മൊബൈൽ ഉപകരണത്തിൽ നിന്ന് നീക്കുക എന്നതാണ് മറ്റൊരു കാര്യം മറ്റ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടിംഗ് പവർ വേർപെടുത്തുക അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടിംഗ് പവറും സംഭരണവും ഈ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നതാണ് ഈ രണ്ട് പ്രാഥമിക കാര്യങ്ങളും ഉണ്ട് ഇത് മൊബൈൽ ഉപയോക്താക്കളുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരുടെയും ക്ലൌഡ് ദാതാക്കളുടെയും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് മൊബൈൽ നെറ്റ്വർക്കുകളുടെ സംയോജനമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ഇതെല്ലാം ഒരു വിധത്തിൽ നമ്മൾ വിൻ വിൻ സാഹചര്യം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ എംസിസി കമ്പ്യൂട്ടിംഗ് ചെയ്യുന്നത് ഇത് നന്നായി മനസ്സിലാക്കാം ഒന്നാമതായി വേഗതയും വഴക്കവും ഞങ്ങൾ നോക്കുന്നു ക്ലൌഡ് സേവനങ്ങൾ ഉപയോഗിച്ച് മൊബൈൽ അപ്ലിക്കേഷനുകൾ വേഗത്തിൽ നിർമ്മിക്കാനോ പുതുക്കാനോ കഴിയും അതിനാൽ എനിക്ക് വളരെയധികം വേഗത കൈവരിക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിനാൽ ക്ലൌഡായി കമ്പ്യൂട്ടിംഗ് കൂടുതൽ വിഭവസമൃദ്ധമാണ് അത് ഉടനടി ചെയ്യാൻ കഴിയും മറ്റൊരു കാര്യമുണ്ട് അതായത് ഒരു ഉപകരണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു സാധാരണ മാപ്പിൽ പോയിന്റ് എയ്ക്കും പോയിന്റ് ബി നും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ പാത അല്ലെങ്കിൽ കുറഞ്ഞ ദൂരം കണ്ടെത്തുന്നതിന് ഞാൻ ഒരു അൽഗോരിതം ഉപയോഗിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ എനിക്ക് അതിനു കഴിയും ഒരു പുതിയ ഹ്യൂറിസ്റ്റിക്സ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലൌഡിൽ മാറ്റം വരുത്താനാകും മാത്രമല്ല മൊബൈൽ ഉപകരണത്തിലെ എന്റെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷന് ഇത് തടസ്സമില്ലാത്തതാണ് എന്തിനായാലും എങ്ങനെയായാലും ക്ലൌഡിൽ ഓഫ്ലോഡ് ചെയ്യാം ബാക്കിയുള്ളവ ഓഫ്ലോഡ് ചെയ്യേണ്ടത് മാത്രമാണ് കടമ ബാക്കിയുള്ള കണക്കുകൂട്ടൽ ശരിയാണ് വ്യത്യസ്ത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി എനിക്ക് വ്യത്യസ്ത അൽഗോരിത കാര്യങ്ങളും വരും അപ്പോൾ ഇത് ഉപകരണങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ പ്രോസസ്സിംഗിൽ നിന്ന് വേർപെടുത്തുന്നതുപോലെയാണ് അതിനാൽ ഇത് വഴക്കമുള്ളതും വേഗതയുള്ളതുമാണ് എനിക്ക് പങ്കിട്ട വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ക്ലൌഡിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മൊബൈൽ അപ്ലിക്കേഷനുകൾ ഉപകരണ സംഭരണവും പ്രോസസ്സിംഗ് ഉറവിടങ്ങളും നിയന്ത്രിക്കുന്നില്ല ഡാറ്റ തീവ്രമായ പ്രക്രിയകൾക്ക് ക്ലൌഡിൽ പ്രവർത്തിക്കാൻ കഴിയും ഉപയോക്തൃ ഇടപെടലും തടസ്സമില്ലാത്ത പ്രക്രിയകളും ഉപകരണങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ നമ്മൾ എന്താണ് പറയുന്നത് ചില കാര്യങ്ങൾ മൊബൈൽ ഉപകരണങ്ങളിൽ ചെയ്യേണ്ടതുണ്ട് ചിലത് ഓഫ്ലോഡ് ചെയ്യാം അത്തരം ചലനാത്മക ഡീലുകളും പാർട്ടീഷനിംഗും ഇപ്പോഴും ഒരു പ്രധാന വെല്ലുവിളിയാണ് എവിടെ നിന്ന് സംഭരിച്ചിട്ടുണ്ടെന്നത് പരിഗണിക്കാതെ തന്നെ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് വേഗത്തിലും സുരക്ഷിതമായും ഈ സംയോജിത ഡാറ്റ ശേഖരിക്കാനും സംയോജിപ്പിക്കാനും മൊബൈൽ ക്ളൌഡ് കമ്പ്യൂട്ടിംഗ് ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നു ഒരുതരം ദുരന്തനിവാരണ മാനേജ്മെൻറ് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ദുരന്തനിവാരണ സംവിധാനം ഉണ്ടെങ്കിൽ മൊബൈൽ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ധാരാളം ഡാറ്റ ശേഖരിക്കേണ്ടതുണ്ട് ഒപ്പം ഏത് തരത്തിലുള്ള ലഘൂകരണ തന്ത്രങ്ങളാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് കാണാൻ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ക്ലൌഡിലുള്ള ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ടാകാം ഒപ്പം വ്യത്യസ്ത തരം വൈവിധ്യമാർന്ന ഡാറ്റ സെറ്റുകൾക്കൊപ്പം പരിധികളില്ലാതെ സംയോജിപ്പിക്കാനും കഴിയും അതിനാൽ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് മൊബൈൽ ഉപകരണങ്ങളിലേക്ക് വേഗത്തിലും സുരക്ഷിതമായും ആപ്ലിക്കേഷൻ നൽകുന്നു കൂടാതെ പ്രാദേശിക വിഭവങ്ങൾക്കപ്പുറമുള്ള കഴിവുകൾ ദ്രുത വികസന ഡെലിവറി മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യൽ എന്നിവ പോലുള്ളവ കുറച്ച് ഉപകരണ വിഭവങ്ങൾ ഉപയോഗിക്കുന്നു കാരണം അപ്ലിക്കേഷനുകൾ ക്ലൌഡ് പിന്തുണയുള്ളതാണ് അതിനാൽ എനിക്ക് ഉപകരണ വിഭവങ്ങൾ കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഉപകരണ വിഭവങ്ങൾ ലോഡുചെയ്യുന്നത് കുറവാണ് ഇതിനാൽ ബാറ്ററി പവർ കുറവാണ് ചൂടാകൽ കുറവാണ് മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് നിരവധി ആപ്ലിക്കേഷനുകൾ ശരിയായി പ്രവർത്തിപ്പിക്കാനും കഴിയും ക്ളൌഡിൽ മൊബൈൽ ഉപകരണങ്ങൾ വഴി ചെയ്യുന്നതുപോലെ വിവിധ വികസന സമീപനങ്ങളെ പിന്തുണയ്ക്കുന്നു അതിനാൽ ഒരേ തരത്തിലുള്ള കമ്പ്യൂട്ടിംഗ് കാര്യങ്ങൾക്ക് വിവിധ ആപ്ലിക്കേഷനുകളെ പിന്തുണയ്ക്കാൻ കഴിയും അതിനർത്ഥം കാര്യങ്ങളിൽ ഉടനീളം സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് എളുപ്പമാണ് അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ അൽഗോരിതം എന്നിവയുടെ പുനരുപയോഗം വളരെ ഉയർന്നതാണ് ഒരു API ആർക്കിടെക്ചറിലൂടെ വിതരണം ചെയ്യുന്ന സേവനങ്ങളിലേക്ക് മൊബൈൽ ഉപകരണങ്ങൾ കണക്റ്റുചെയ്യുന്നത് വിശ്വാസ്യതയും ക്ലൌഡിൽ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങളും മെച്ചപ്പെടുത്തുന്നു ഇത് ഉപകരണത്തെ ആശ്രയിച്ചല്ല നിങ്ങൾ ഉപകരണത്തിൽ ഡാറ്റ സംഭരിക്കുന്നുവെന്ന് കരുതുക ഉപകരണം എല്ലാം വിശ്വസനീയമായ സംഭരണ സൌകര്യങ്ങളുള്ള ക്ലൌഡിൽ എവിടെയെങ്കിലും എനിക്ക് ഒരു സംഭരണം ഉണ്ടെങ്കിൽ എന്റെ വിവരങ്ങൾ കൂടുതൽ വിശ്വസനീയമായി സംഭരിക്കപ്പെടുകയും കൈകാര്യം ചെയ്യാനും കഴിയും അതിനാൽ നമ്മൾ നോക്കിയാൽ ഒരറ്റത്ത് ഈ സ്മാർട്ട് മൊബൈൽ ഉപകരണങ്ങളാണ് ഇത് ഞങ്ങൾ SMD എന്ന് ചുരുക്കിപ്പറയുന്നു മറ്റേ അറ്റം ഒരു കമ്പ്യൂട്ടേഷണൽ ക്ലൌഡ് ആണ് ഇതിനിടയിൽ സേവന ദാതാവ് നൽകുന്ന വയർലെസ് നെറ്റ്വർക്ക് സാങ്കേതികവിദ്യയുണ്ട് വിഭവ നിയന്ത്രിത മൊബൈൽ ഉപകരണങ്ങളുടെ പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനും ക്ലൌഡ് അധിഷ്ഠിത സെർവറുകളിൽ പ്രോഗ്രാമിന്റെ ഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള ഒരു ചട്ടക്കൂടാണ് മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഈ ദിവസങ്ങളിൽ മൊബൈൽ ഉപകരണങ്ങൾ വളരെയധികം വിഭവസമൃദ്ധമല്ലെന്ന് ആർക്കും വാദിക്കാൻ കഴിയില്ല പക്ഷേ ക്ലൌഡിനോ ക്ലൌഡ് അധിഷ്ഠിത സെർവറുകൾക്കോ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള വിഭവങ്ങൾക്ക് തുല്യമായി ഒന്നുമില്ല അതിനർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ ഉപകരണത്തിൽ കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ കൂടുതൽ വിഭവ വിശപ്പുള്ള അപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ കുറഞ്ഞ കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നതിനാൽ ബാറ്ററി പവർ ലാഭിക്കുന്നു നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്തും തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ എക്സിക്യൂഷൻ വേഗത്തിലാക്കുന്നു തീർച്ചയായും അതിന്റെ മറു വശം ഉണ്ട് പ്രോഗ്രാം സ്റ്റേറ്റ് ഡാറ്റ എന്നിവ അയയ്ക്കണം അതിനാൽ ഡാറ്റ കൈമാറുന്നതിന്റെ അധിക ലോഡിംഗാണ് ഇത് നെറ്റ്വർക്ക് ലേറ്റൻസി ഒഴികഴിവിലേക്കും കാലതാമസത്തിലേക്കും നയിച്ചേക്കാം ലേറ്റൻസി പ്രശ്നമുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ എക്സിക്യൂഷൻ കാലതാമസം ഉണ്ടാകാം ഇത് മൊത്തത്തിലുള്ള വലിയ ചിത്രമാണ് ഒരു ഫ്ലോചാർട്ട് അതിനാൽ അത് ഒരു ഭാഗം മൊബൈൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ മറ്റൊരു ഭാഗം ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കാര്യങ്ങളെക്കുറിച്ചും ഈ വർക്ക്ഫ്ലോ എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെക്കുറിച്ചും ആണ് അതിനാൽ മൊബൈൽ അപ്ലിക്കേഷനുകൾ ഉണ്ട് നിർദ്ദിഷ്ട അപ്ലിക്കേഷനെയും ഉപകരണങ്ങളെയും വ്യത്യസ്തമായി പ്രൊഫൈലാക്കുന്ന ഒരു പ്രൊഫൈലർ ഉണ്ടായിരിക്കണം അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സോൾവെർ ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് അവ വിഭജിച്ചതെങ്കിൽ അത് എങ്ങനെ പ്രൊഫൈൽ ചെയ്യണം കാര്യങ്ങളിലേക്ക് അയയ്ക്കേണ്ടതുണ്ട് പിന്നെ എങ്ങനെ പരിഹരിക്കാമെന്നത് അവിടെ ഉണ്ടാകും അത് ഒരു SMD സമന്വയമാണ് SMD എന്നാൽ സ്മാർട്ട് മൊബൈൽ ഉപകരണങ്ങളെ സൂചിപ്പിക്കുന്നു ഉപകരണം ഉപയോഗിച്ച് സമന്വയിപ്പിക്കുക കാരണം ഞങ്ങൾ പാർട്ടീഷൻ നടത്തി ക്ലൌഡിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഈ സമന്വയ പ്രക്രിയ എങ്ങനെ തുടരുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലോഡ് മാനേജർ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്ലൌഡിലേക്കുള്ള ഡാറ്റ പിടിച്ചെടുക്കുന്നുവെന്നും ക്ലൌഡിൽ കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അത് പറയുന്നു നമുക്ക് ആ ക്ലൌഡ് ഡാറ്റ അയച്ചയാളും സെർവർ നോഡുകളും ഉണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയധികം കണ്ടു ചർച്ചചെയ്തു ക്ലൌഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മൂന്നാം കക്ഷി അപ്ലിക്കേഷനാണ് ഒരു പ്രത്യേക ക്യൂവിനുള്ളിൽ നടപ്പിലാക്കേണ്ടതും ചില SLA കൾക്കൊപ്പം നൽകേണ്ടതുമായ കാര്യങ്ങളിലേക്ക് ചില മൂന്നാം കക്ഷി ഉപയോക്തൃ അഭ്യർത്ഥനകൾ വരുന്നു അതിനിടയിൽ നമുക്ക് വയർലെസ് മീഡിയയുണ്ട് അത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അത് കമ്പ്യൂട്ടിംഗോ അപ്ലിക്കേഷനുമായി നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഈ ലേറ്റൻസിയെ പരിഹരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലെങ്കിൽ ഈ ലേറ്റൻസി നിങ്ങൾ പരിഹരികേണ്ടി വരും റൺടൈം ഓഫ്ലോഡിംഗ് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത തന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് ഡൈനാമിക് റൺടൈം ഓഫ്ലോഡിംഗ് പോലുള്ള ഘടകങ്ങളിൽ എസ്എംഡി റൈറ്റ് റൺടൈം ആപ്ലിക്കേഷൻ പാർട്ടീഷനിംഗിലെ ഡൈനാമിക് ആപ്ലിക്കേഷൻ പ്രൊഫൈലിംഗും സോൾവറും ഉൾപ്പെടുന്നു നിങ്ങൾ അത് വിഭജിക്കേണ്ടതുണ്ട് കമ്പ്യൂട്ടേഷണലി തീവ്രമായ ഘടകത്തിന്റെ റൺടൈം മൈഗ്രേഷൻ മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് റൺടൈം എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമിലെ മുഴുവൻ കാലാവധിയുടെ തുടർച്ചയായ സമന്വയം ഇത് എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ നമ്മൾ കാര്യങ്ങൾ അത്രത്തോളം സമന്വയിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഇവ നോക്കിയാൽ വളരെ ശ്രമകരമായ പ്രശ്നങ്ങളാണ് ഇവ നേരായ കാര്യങ്ങളല്ല ചലനാത്മകമായി റൺടൈമിൽ ചെയ്യുന്നതെന്തും വളരെ വെല്ലുവിളിയാണ് അതിനാൽ മൊബൈൽ ഉപകരണ റൺടൈം ആപ്ലിക്കേഷൻ പാർട്ടീഷനിംഗിലെ എസ്എംഡിയിലെ ഡൈനാമിക് ആപ്ലിക്കേഷൻ പ്രൊഫൈലിംഗും സോൾവറും ഉണ്ട് റൺടൈം തീവ്രമായ ഘടകങ്ങളുടെ മൈഗ്രേഷൻ റൺടൈം എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമിലെ ഇന്റർ ദൈർഘ്യത്തിന്റെ തുടർച്ചയായ സമന്വയം എന്നിവയിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് അപ്ലിക്കേഷനുകൾ നിങ്ങൾ വികസിപ്പിക്കുമ്പോൾ പരിഹരിക്കപ്പെടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ് നിരവധി ഘടകങ്ങളുണ്ട് ചില പ്രധാന ഘടകങ്ങൾ ഇവയാണ് ഒന്ന് ഈ പ്രൊഫൈലർ ഇത് അപ്ലിക്കേഷൻ എക്സിക്യൂഷൻ നിരീക്ഷിക്കുന്നതു വഴി എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയം ഊർജ്ജ ഉപഭോഗം നെറ്റ്വർക്ക് ട്രാഫിക് എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുന്നു മൊബൈലിലും ക്ലൌഡിലും ഒരു അപ്ലിക്കേഷന്റെ ഏത് ഭാഗം പ്രവർത്തിക്കുന്നുവെന്ന് തിരഞ്ഞെടുക്കാനുള്ള ചുമതല സോൾവറിനുണ്ട് അതിനാൽ മൊബൈൽ അറ്റത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടതും ക്ലൌഡ് അറ്റത്ത് അപ്ലോഡുചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഇത് നോക്കേണ്ടതുണ്ട് ഇത് സോൾവറിന്റെ പ്രധാന കടമയാണ് മൊഡ്യൂൾ സമന്വയിപ്പിക്കാനുള്ള ചുമതല സിൻക്രൊണൈസറിനുണ്ട് സ്പ്ലിറ്റ് എക്സിക്യൂഷന്റെ ഫലങ്ങൾ ശേഖരിക്കുകയും സംയോജിപ്പിച്ച് എക്സിക്യൂഷൻ വിശദാംശങ്ങൾ ഉപയോക്താവിന് സുതാര്യമാക്കുകയും ചെയ്യുക എന്നതാണ് സിൻക്രൊണൈസർ മൊഡ്യൂളിന്റെ കടമ അത് പ്രധാനമാണ് ശരിയല്ലേ നിങ്ങൾ റൺടൈമിൽ കാര്യങ്ങൾ വിഭജിച്ചു ഈ വിഭജന കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട് ഉപകരണത്തിൽ ആപ്ലിക്കേഷൻ പരിധികളില്ലാതെ പ്രവർത്തിക്കുന്നതായും കൂടുതൽ കാലതാമസമില്ലാതെ ഒരു ഉപയോക്താവിന് ചില തോന്നൽ നൽകുന്നതിനാണിത് അതിനാൽ കൈകാര്യം ചെയ്യുന്നതിലും ഇത് ഒരു പ്രധാന വെല്ലുവിളിയാണ് നമ്മൾ കാണുന്ന ആവശ്യകതകൾ പോലുള്ള മറ്റ് ഘടകങ്ങളുണ്ട് ലളിതമായ API കൾ API വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കരുത് അതിനാൽ ആ ഉപയോക്താവ് അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ലളിതമായ API മൊബൈൽ ഉപകരണങ്ങളിലേക്ക് ആക്സസ്സ് വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം നെറ്റ്വർക്ക് സാങ്കേതികവിദ്യകളെക്കുറിച്ച് പ്രത്യേക അറിവ് ആവശ്യമില്ല അതിനാൽ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവും ആ കാര്യങ്ങളെല്ലാം അറിയുന്നതും ഉപയോക്താവിന് ഭാരമാകില്ല വെബ് ഇന്റർഫേസ് ക്ലൌഡിൽ അപ്ലിക്കേഷനുകൾ വിദൂരമായി സംഭരിക്കുന്നതിന് നമുക്ക് ഉചിതമായ വെബ് ഇന്റർഫേസ് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരിക്കണം അതിനാൽ ക്ലൌഡിൽ വിദൂരമായി സംഭരിച്ച അപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരിക്കണം അത് അവിടെയുണ്ട് നമ്മൾ ഒരു സാധാരണ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ഒരു വശത്ത് നമുക്ക് മൊബൈൽ ഉപകരണങ്ങളുണ്ട് മറ്റൊരു വശത്ത് ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പരിസ്ഥിതി കൂടാതെ വ്യത്യസ്ത സേവന ദാതാക്കളുണ്ട് അത് നെറ്റ്വർക്ക് നട്ടെല്ല് നൽകുന്നു ഒപ്പം ഈ ക്ലൌഡിലേക്ക് കണക്റ്റുചെയ്യുന്നതിന് ഇന്റർനെറ്റ് സേവനങ്ങളുമുണ്ട് അതിനാൽ ഈ മൊബൈൽ ഉപകരണങ്ങളെയോ ആപ്ലിക്കേഷനുകളെയോ കണക്റ്റുചെയ്യുന്ന ഉചിതമായ ഉപയോക്തൃ ഇന്റർഫേസാണ് ക്ലൌഡ് അത് മൊബൈൽ ഉപകരണങ്ങൾ ക്ലൌഡിലേക്ക് ലോഡുചെയ്യുന്നു മൊബൈൽ ഉപയോക്താവും നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരും ഉണ്ട് ഇന്റർനെറ്റ് സേവന ദാതാവും അപ്ലിക്കേഷൻ സേവന ദാതാവും ഇവ സമന്വയത്തിൽ ശരിയായി പ്രവർത്തിക്കേണ്ടതുണ്ട് മൊബൈൽ ഉപകരണങ്ങൾ അടിസ്ഥാന സ്റ്റേഷനുകൾ വഴി മൊബൈൽ നെറ്റ്വർക്കുകളിലേക്ക് കണക്റ്റുചെയ്യുകയും നെറ്റ്വർക്കും മൊബൈൽ ഉപകരണങ്ങളും തമ്മിലുള്ള പ്രവർത്തന ഇന്റർഫേസിന്റെ കണക്ഷൻ സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു മൊബൈൽ ഉപയോക്താവിന് വിവരങ്ങൾ ആവശ്യമാണ് അതിനാൽ അടിസ്ഥാന സ്റ്റേഷനിലേക്ക് കൂടുതൽ ഉപകരണങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഒന്ന് കൂടാതെ മൊബൈൽ ഉപയോക്താവിന് വിവരങ്ങൾ കേന്ദ്ര ഉടമസ്ഥതയിലേക്ക് കൈമാറേണ്ടതുണ്ട് മാത്രമല്ല അവ സെർവർ ശേഖരിക്കുകയും ചെയ്യുന്നു അതിനാൽ അത് കൈമാറ്റം ചെയ്യപ്പെടണം അതിനാൽ ഡാറ്റയുടെ പ്രക്ഷേപണം ഉണ്ട് വരിക്കാരുടെ അഭ്യർത്ഥനകൾ ഇന്റർനെറ്റ് വഴി ക്ലൌഡിലേക്ക് കൈമാറുന്നു വരിക്കാരൻ അതിനെക്കുറിച്ച് സുതാര്യമായിരിക്കണം ക്ലൌഡിൽ മൊബൈൽ ഉപയോക്താവിന് അനുബന്ധ ക്ലൌഡ് സേവനങ്ങൾ നൽകാനുള്ള അഭ്യർത്ഥന ക്ലൌഡ് കൺട്രോളറുകൾ പ്രോസസ്സ് ചെയ്യുന്നു അതിനാൽ ക്ലൌഡ് കൺട്രോളർ കാര്യം പ്രോസസ്സ് ചെയ്യണമെന്ന അഭ്യർത്ഥനയെ അടിസ്ഥാനമാക്കി ഇത് മൊബൈൽ ഉപയോക്താവിന് അഭ്യർത്ഥിച്ച സേവനങ്ങൾ നൽകാൻ കഴിയും അതിനാൽ നിരവധി ഗുണങ്ങളുണ്ട് അവയിൽ ചിലത് ഞങ്ങൾ ഇതിനകം പരിശോധിച്ചു അതിലൊന്നാണ് ബാറ്ററി ആയുസ്സിലെ വിപുലീകരണം നിങ്ങൾ ചില കമ്പ്യൂട്ടിംഗ് കാര്യങ്ങൾ ഓഫ്ലോഡ് ചെയ്യുന്നതിനാൽ അത് വിഭവം അമിതമായി ഉപയോഗിക്കുന്നവ ആണെങ്കിൽ ഒരർത്ഥത്തിൽ നിങ്ങൾ ഊർജ്ജവും ബാറ്ററി ആയുസ്സും ലാഭിക്കുന്നു കമ്പ്യൂട്ടർ ഓഫ്ലോഡിംഗ് റിസോഴ്സ് വലിയ കണക്കുകൂട്ടലുകളെയും സങ്കീർണ്ണമായ പ്രോസസ്സിംഗിനെയും പരിമിത ഉപകരണത്തിൽ നിന്ന് അതായത് മൊബൈൽ ഉപകരണത്തിൽ നിന്ന് വിഭവസമൃദ്ധമായ മെഷീനുകളിലേക്ക് അതായത് ക്ളൌഡ് സെർവറുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു വിദൂര ആപ്ലിക്കേഷൻ എക്സിക്യൂഷന് ഊർജ്ജം ഗണ്യമായി ലാഭിക്കാൻ കഴിയും ടാസ്ക് മൈഗ്രേഷൻ വിദൂര പ്രോസസ്സിംഗ് എന്നിവയിൽ നിന്ന് നിരവധി മൊബൈൽ അപ്ലിക്കേഷനുകൾ പ്രയോജനപ്പെടുത്തുന്നു ബാറ്ററി ആയുസ്സ് ലാഭിക്കാൻ സഹായിക്കുക ഡാറ്റ സംഭരണ ശേഷി മെച്ചപ്പെടുത്തുക ശരിയായ പ്രോസസ്സിംഗ് പവർ ലഭിക്കുക എന്നിവ സാധ്യമാകുന്നു ഇത് ഒരു വലിയ അളവിലുള്ള ഡാറ്റ സംഭരണ ശേഷിയുള്ള ഒരു ക്ലൌഡിൽ സംഭരിച്ചിരിക്കുന്നു അത് ഡാറ്റ സംഭരണ ശേഷി മെച്ചപ്പെടുത്തുന്നു എനിക്ക് തുടർച്ചയായി ഡാറ്റ എടുക്കാൻ കഴിയും ഞാൻ പാരിസ്ഥിതിക ഡാറ്റ എടുക്കാൻ പോകുന്നുവെന്ന് കരുതുക അത് ഓഫ്ലോഡുചെയ്യുന്നു എന്റെ സ്വന്തം ഉപകരണങ്ങളിൽ ലോഡിംഗ് ഇല്ല അതിനാൽ ഒരു നേട്ടമുണ്ടെന്നും തീർച്ചയായും എന്റെ നെറ്റ്വർക്ക് ലേറ്റൻസി അനുവദനീയമായ പരിധിയിലാണെങ്കിൽ എനിക്ക് ബാക്കെൻഡിൽ ഒരു വലിയ പ്രോസസ്സിംഗ് പവർ ഉണ്ടെന്നും വ്യക്തമാണ് വിശ്വാസ്യതയും ലഭ്യതയും മെച്ചപ്പെടുന്നു ഡാറ്റയും ആപ്ലിക്കേഷനും ക്ലൌഡിൽ സൂക്ഷിക്കുന്നത് മൊബൈൽ ഉപകരണങ്ങളോടൊപ്പം ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഒരു നഷ്ടമുണ്ടായാൽ കൂടി കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുക സേവന ദാതാവിനും ഉപയോക്താക്കൾക്കുമായി സമഗ്രമായ ഡാറ്റാ സുരക്ഷാ മോഡലായി എംസിസി രൂപകൽപ്പന ചെയ്യാൻ കഴിയും വളരെയധികം സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിലും പകർപ്പവകാശമുള്ള ഡിജിറ്റൽ ഉള്ളടക്കം ക്ലൌഡിൽ ഇടുകയോ വൈറസ് സ്കാനിംഗ് ക്ഷുദ്ര കോഡ് കണ്ടെത്തൽ തുടങ്ങിയ സുരക്ഷാ സേവനങ്ങൾ നൽകുകയോ ചെയ്യുന്നതുപോലെ അവ രൂപകൽപ്പന ചെയ്യാൻ കഴിയും ക്ലൌഡിലെ ഡാറ്റയും സേവനങ്ങളും ഉപയോഗിച്ച് ഉപയോക്താക്കൾ സഞ്ചരിക്കുമ്പോൾ പോലും അവ എല്ലായ്പ്പോഴും അവിടെ ലഭ്യമാണ് മറ്റൊരു കാര്യം ഡാറ്റയും സേവനങ്ങളും ക്ലൌഡിലേക്ക് ലോഡുചെയ്യുകയാണെങ്കിൽ അവ സർവ്വവ്യാപിയാണ് അല്ലേ ആക്സസ്സുചെയ്യുന്ന മറ്റ് ഉപകരണങ്ങളുമായോ മറ്റ് കാര്യങ്ങളുമായോ എനിക്ക് ഒരു സമന്വയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉപകരണം നീക്കുന്നിടത്തെല്ലാം എനിക്ക് എല്ലായ്പ്പോഴും ആക്സസ്സ് നേടാനാകും അതിനാൽ ഇത് എല്ലായ്പ്പോഴും ലഭ്യമാണ് സേവനങ്ങളെക്കുറിച്ചോ പ്രോസസ്സിംഗ് സേവനങ്ങളെക്കുറിച്ചോ ഡാറ്റയെക്കുറിച്ചോ കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാട് പരിശോധിക്കാം അതിനാൽ 'ഡൈനാമിക് പ്രൊവിഷനിംഗ് ' പോലുള്ള മറ്റ് ഗുണങ്ങളുണ്ട് എനിക്ക് ഡൈനാമിക് ആയി പ്രൊവിഷനിംഗ് നൽകാൻ കഴിയും സ്കേലബിളിറ്റി ക്ലൌഡ് നൽകുന്ന അനന്തമായ സ്കേലബിളിറ്റിയാണ് മൾട്ടി ടെനൻസി മൾട്ടി ടെനൻസി സംവിധാനം ക്ളൌടിനു ഉള്ളതിനാൽ സേവന ദാതാവിന് ധാരാളം ഉപയോക്താക്കളിൽ വിവിധ ആപ്ലിക്കേഷനുകൾ പിന്തുണയ്ക്കുന്നതിനുള്ള വിഭവങ്ങളും ചെലവും പങ്കിടാൻ കഴിയും ഈസ് ഓഫ് ഇന്റഗ്രേഷൻ അഥവാ സംയോജനത്തിന്റെ സുഗമ ഉപയോക്താക്കളുടെ ആവശ്യം നിറവേറ്റുന്നതിനായി വ്യത്യസ്ത ദാതാക്കളിൽ നിന്നുള്ള ഒന്നിലധികം സേവനങ്ങൾ ക്ലൌഡിലൂടെയും ഇന്റർനെറ്റിലൂടെയും എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ എനിക്ക് ഒരിടത്ത് സ്റ്റാൻഡേർഡ് ചെയ്യാൻ കഴിയും എനിക്ക് വിവിധ ഉപകരണങ്ങളും തരങ്ങളും ക്ലൌഡിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയും എനിക്ക് കാര്യങ്ങളുടെ സംയോജനം നടത്താം നിരവധി വെല്ലുവിളികൾ ഉണ്ട് ഒരു പ്രധാന വെല്ലുവിളി മറ്റ് സാഹചര്യങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ സുരക്ഷാ പ്രശ്നങ്ങളാണ് മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ഉപഭോക്തൃ വിശ്വാസം സ്ഥാപിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള പ്രധാന ഘടകമാണ് ഉപയോക്താക്കളുടെ സ്വകാര്യത ഡാറ്റ സ്വകാര്യത എതിരാളികളിൽ നിന്ന് ഡാറ്റാ ആപ്ലിക്കേഷൻ രഹസ്യങ്ങൾ എന്നിവ പരിരക്ഷിക്കുന്നത് പ്രത്യേകിച്ചും മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ കാര്യത്തിൽ എന്റെ ഡാറ്റ പ്രോസസ്സിംഗ് കാര്യങ്ങൾ മറ്റ് എതിരാളികളിൽ നിന്നോ ആക്രമണകാരികളിൽ നിന്നോ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നത് പ്രധാനമാണ് അല്ലെങ്കിൽ കുറഞ്ഞത് ഉപകരണത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉപകരണങ്ങളിൽ എനിക്ക് അൽപ്പം വലിയ വിശ്വാസമുണ്ട് എന്നാൽ ഒരിക്കൽ ഞാൻ ഓഫ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല മിക്ക സാഹചര്യങ്ങളിലും ഞാൻ ക്ലൌഡിലേക്ക് തന്നെ സബ്സ്ക്രൈബുചെയ്യുന്നില്ല ഞാൻ സേവന ദാതാവിനെ സബ്സ്ക്രൈബുചെയ്യുന്നു മുഴുവൻ മാതൃകയും അത് ക്ലൌഡിലേക്ക് ലോഡുചെയ്യുന്നു ലഭ്യത വിലനിർണ്ണയം മറ്റ് ഘടകങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി മുഴുവൻ ചട്ടക്കൂടും മറ്റൊരു ക്ലൌഡ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലൌഡ് തിരഞ്ഞെടുക്കാനിടയുണ്ട് അതിനാൽ ഇത് ചിലപ്പോൾ സുരക്ഷാ പോയിന്റിൽ വിഷമകരമായ പ്രശ്നമായി മാറുന്നു അതിനാൽ എംസിസി സുരക്ഷാ പ്രശ്നങ്ങൾക്ക് മൊബൈൽ ഉപയോക്താക്കളുടെ സുരക്ഷ ക്ലൌഡിന്റെ ഡാറ്റ സുരക്ഷിതമാക്കുക എന്നിങ്ങനെ രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട് അതിനാൽ സ്വകാര്യതയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് മൊബൈൽ ഉപയോക്താവിന്റെ ഡാറ്റ മാത്രമല്ല എന്റെ ഐഡന്റിറ്റി മൊബിലിറ്റി എന്റെ ജിപിഎസ് കാൽപ്പാടുകൾ ട്രാക്കുചെയ്യുന്നുവെന്ന ആശങ്കയുമാണ് അതിനാൽ നിരവധി പ്രശ്നങ്ങളുണ്ട് മൊബൈൽ ഉപയോക്താവിന്റെ സുരക്ഷയും സ്വകാര്യതയും ഒരു പ്രധാന പ്രശ്നമാണ് അതിനാൽ ക്ഷുദ്ര കോഡ് പോലുള്ള നിരവധി സുരക്ഷാ ഭീഷണികൾക്ക് മൊബൈൽ ഉപാധികൾക്ക് വിധേയമാകാം ജിപിഎസ് സബ്സ്ക്രൈബർമാരുടെ സ്വകാര്യതക്ക് പ്രശ്നമുണ്ടാക്കാം ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ മൊബൈൽ ഉപയോക്താവിന്റെ സ്വകാര്യത പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു അവരുടെ നിലവിലെ ലൊക്കേഷൻ മുതലായ സ്വകാര്യ വിവരങ്ങൾ നൽകുന്നു ഉപയോക്താവിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരു എതിരാളിക്ക് അറിയാമെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും ഒപ്പം ക്ലൌഡിൽ ഭീഷണി കണ്ടെത്തി നീക്കാൻ ഉള്ള കഴിവുകൾ മൊബൈൽ ഉപയോക്താക്കളുടെ സുരക്ഷ സമീപനത്തെ ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ വ്യത്യസ്ത തരം സമീപനങ്ങളുണ്ട് സിസ്റ്റത്തിലെ ഫയൽ പ്രവർത്തനം പരിശോധിക്കുന്നതിന് ഹോസ്റ്റ് ഏജന്റ് മൊബൈൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു ക്ലൌഡിലെ വിദൂര സെർവറിൽ ഒരു സ്മാർട്ട്ഫോണിലെ ആക്രമണം കണ്ടെത്തൽ നടത്തുന്നു തമ്മിൽ ഒരു കണക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പോലെ ആകാം അതിനാൽ മൊബൈൽ ഉപയോക്താവിനെ പ്രതികൂലമായി ബാധിക്കാം സ്മാർട്ട്ഫോൺ ഏറ്റവും കുറഞ്ഞ എക്സിക്യൂഷൻ ട്രേസ് മാത്രമേ റെക്കോർഡുചെയ്യുന്നുള്ളൂ അത് ക്ലൌഡിലെ സുരക്ഷാ സെർവറിലേക്ക് കൈമാറുന്നു അതിനാൽ അത് മറ്റൊരു പ്രശ്നമാണ് അതിനാൽ മൊബൈൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ സന്ദർഭ അവബോധമുള്ള മൊബൈൽ ക്ലൌഡ് സേവനങ്ങൾ പോലുള്ള മറ്റ് വെല്ലുവിളികളും ഉണ്ട് അതിനാൽ ഇത് മൊബൈൽ ഉപയോക്താക്കളുടെ കോണ്ടെക്സ്റ്റ് അവേർ അഥവാ സന്ദർഭ അവബോധ സേവനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നു മൊബൈൽ ഉപയോക്താക്കളുടെ മുൻഗണനകൾ നിരീക്ഷിച്ച് ഓരോ ഉപയോക്താക്കൾക്കും ഉചിതമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ സംതൃപ്തി നിറവേറ്റേണ്ടത് പ്രധാനമാണ് വ്യത്യസ്ത ഉപയോക്താക്കൾ എല്ലാറ്റിനുമുപരിയായി മനുഷ്യരാണ് കാര്യങ്ങൾ നോക്കുന്നതിന് വ്യത്യസ്ത രീതികളുണ്ട് ഏത് തരം ഉപയോക്താക്കളാണ് എന്ന് എനിക്ക് വർഗ്ഗീകരിക്കേണ്ടതുണ്ട് ചില സ്ട്രീമിംഗ് മൾട്ടിമീഡിയ കാര്യങ്ങൾ നോക്കുന്നുണ്ടാകാം ചിലമെയിൽ ഡാറ്റ സേവനങ്ങൾ കൂടുതൽ ഉപയോഗിക്കും ചില ഉപയോക്താക്കൾ ഡാറ്റ വിശകലനം പോലുള്ള ചില ശാസ്ത്രീയ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടാകാം അതിനാൽ ഈ തരം വ്യത്യസ്ത ഉപയോക്താവിന് ബാക്കെൻഡിൽ വ്യത്യസ്ത തരം ആവശ്യങ്ങളുണ്ട് അതിനാൽ ആ സേവനങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലെങ്കിൽ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ശരിയായി നോക്കേണ്ടതുണ്ട് അതിനാൽ സന്ദർഭ ബോധമുള്ള മൊബൈൽ ക്ലൌഡ് സേവനങ്ങൾ പ്രാദേശിക സന്ദർഭം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അതായത് സേവന തരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഡാറ്റ തരങ്ങൾ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഉപകരണ പരിസ്ഥിതി ഉപയോക്തൃ മുൻഗണനകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നു നെറ്റ്വർക്ക് ആക്സസ്സ് മാനേജുമെന്റ് മറ്റൊരു വെല്ലുവിളിയാണ് ലിങ്ക് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ബാൻഡ്വിഡ്ത്ത് ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുമാണ് ഒരു നെറ്റ്വർക്ക് ആക്സസ്സ് മാനേജുമെന്റ് ഈ നെറ്റ്വർക്ക് ലേറ്റൻസി ഒരു പ്രധാന തടസ്സമാണ് ലേറ്റൻസി കുറച്ചുകൊണ്ട് ഇത് നെറ്റ്വർക്കിന്റെ ബാൻഡ്വിഡ്ത്ത് മെച്ചപ്പെടുത്തുക മാത്രമല്ല ആ ഉപയോഗങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇവയ്ക്കെല്ലാം ശേഷം നിരവധി ഉപയോക്താക്കൾ ഉപയോഗിക്കുന്ന വിഭവങ്ങളാണ് സേവനത്തിന്റെ ഗുണനിലവാരം മറ്റൊരു വശമാണ് വിലനിർണ്ണയം ഒരു ശ്രമകരമായ പ്രശ്നമാണ് അല്ലേ അതിനാൽ ഇപ്പോൾ ഒരുപാട് കക്ഷികൾ ഉൾപ്പെട്ടിരിക്കുന്നു ഇത് ക്ലൌഡ് ദാതാവ് മാത്രമല്ല ഇത് ഒരു മൊബൈൽ സേവന ദാതാവ് കൂടിയാണ് ഈ വില എങ്ങനെ ഉണ്ടാകും ബിസിനസ്സ് മോഡൽ എന്തായിരിക്കണം വില എങ്ങനെ ഉപയോഗപ്പെടുത്താം ഒരു ഉപയോക്താവ് എവിടെയാണ് പണം നൽകുന്നത് അവർക്ക് എന്ത് പ്രയോജനം ലഭിക്കും എന്താണ് എസ്എൽഎകൾ കാര്യങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് ഇവ വളരെ തന്ത്രപരവും വളരെ പ്രധാനപ്പെട്ടതുമായ പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് സ്റ്റാൻഡേർഡ് ഇന്റർഫേസുകൾ

സേവനങ്ങൾ തരം വില ലഭ്യത ഗുണമേന്മ എന്നിവയെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുത്തും മൊബൈൽ ഉപയോക്താവിന് ഏകീകൃത രീതിയിൽ ഒന്നിലധികം ക്ലൌഡ് ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സ്കീം ആവശ്യമാണ് സർവീസ് കൺവെർജൻസ് കൊണ്ട് ഇതാണ് നമ്മൾ അർത്ഥമാക്കുന്നത് അവയെല്ലാം നേടുന്നതിന് ഒത്തുചേരൽ പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇവ കാര്യങ്ങളുടെ ചില പ്രധാന വശങ്ങളാണ് തീർച്ചയായും ഒരു ആവശ്യമുണ്ട് അത് വർദ്ധിച്ചുവരുന്ന ആവശ്യവുമാണ് മൊബൈൽ ഉപകരണങ്ങളിൽ കൂടുതൽ ശക്തമായ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിസോഴ്സ് അധികമായി വേണ്ടി വരുന്ന ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് ദിനം തോറും ആവശ്യം വർദ്ധിക്കുന്നു അതിനാൽ ബാക്കെൻഡിൽ എന്റെ ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആവശ്യമാണ് അതിനാൽ ക്ലൌഡ് തീർച്ചയായും അത് ചെയ്യുന്നതിനുള്ള ഒരു നല്ല ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് ക്ലൌഡ് സേവന ദാതാക്കളുമായി ഈ ഉപകരണങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനം ഉണ്ടായിരിക്കണം ഇതിനിടയിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് സേവന ദാതാവ് അല്ലെങ്കിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്നയാൾ ഉണ്ട് ഒരു വശത്ത് മൊബൈൽ ഉപകരണങ്ങൾ മറ്റൊരു വശത്തെ ക്ലൌഡ് ഇന്റർമീഡിയറ്റ് എന്ന നിലയിൽ ഇന്റർ നെറ്റ്വർക്കിംഗ് ഉൾപ്പെടെയുള്ള ഈ നെറ്റ്വർക്ക് സേവനങ്ങൾ നമുക്ക് അവയെല്ലാം ഒരുമിച്ച് ചേർക്കാനാകും അതിലൂടെ എനിക്ക് സമ്പന്നമായ ആപ്ലിക്കേഷനുകളോ ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ വിഭവസമൃദ്ധമായ ആപ്ലിക്കേഷനുകളോ നേടാനും വിവിധ ഉപയോക്താക്കൾക്കായി ധാരാളം ജോലികൾ ചെയ്യാനും കഴിയും അതിനാൽ ഇതോടു കൂടെ നമുക്ക് ഇന്ന് നിർത്താം